എല്ലാവർക്കും അനിമൽ സെൽ കൾച്ചറിൻറെ അല്ലെങ്കിൽ സെൽ കൾച്ചർ ടെക്നോളജിയുടെ അധ്യായന പരമ്പരയിലെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലെ മൂന്ന് പാഠഭാഗങ്ങൾ തീർത്തു കഴിഞ്ഞു ഇത് നാലാമത്തെ പാഠഭാഗം ആണ് നമ്മൾ ഇതുവരെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൌകര്യങ്ങളെ കുറിച്ചു സംസാരിച്ചു ഞാൻ ചിലത് വിട്ടു പോയിട്ട് ഉണ്ടാവാം അതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ വെക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ആവശ്യമുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ പറഞ്ഞു എന്നാണ് നമുക്ക് ഇനി ഭാവി കാലത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയാം മിക്കവാറും ഇനി ഭാവിയിൽ മൈക്രോ ഫാബ്രിക്കേഷൻ ലാബ് ഓൺ എ ചിപ്പ്lab on a chip അതുപോലത്തെ കാര്യങ്ങൾ ആയിരിക്കും വരുന്നത് ഇത് ഒരു ഭാഗം മാത്രമാണ് ഈ പാഠ്യപദ്ധതിയുടെ അവസാന പകുതിയിൽ രണ്ടു ഭാഗങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഇതിൽ മാറുന്നതെന്ന് നോക്കുന്നു ഏതൊക്കെ ചെറിയ ഇങ്കുബേറ്ററുകളും ലാമിനാർ ഫ്ലോ ഹുഡുകളും അതുപോലത്തെ വേറെ ഏതൊക്കെ സാധനങ്ങൾ ആണ് കമ്പോളത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ചും ലോകം മുഴുവനും നടക്കുന്ന പല തരത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളെ കുറിച്ചും അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പരീക്ഷണശാല ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന് ഒരു ബാഹ്യരേഖ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു ഒരു സാങ്കല്പിക പരീക്ഷണശാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അതിനെ ഒരു സാങ്കൽപിക ലോകത്തിൽ എങ്ങനെ കൊണ്ടുവരും എന്നതിനെ കുറിച്ച് നമ്മൾ പറയും അവിടെ ഡിഷുകളെ കുറിച്ചും കൾച്ചർ വെസ്സലിനെ കുറിച്ചും കൾച്ചർ വെസ്സലിൻറെ ശ്രേണികളെ കുറിച്ചും നോക്കും അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത് എന്തൊക്കെ മുൻ ഉപാധികൾ വേണം പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറാക്കി വയ്ക്കണം നമ്മളുടെ പരീക്ഷണം വളരെ വേഗത്തിൽ പോകാൻ വേണ്ടി നമ്മളിൽ പലരും കുറച്ച് കോശ വികസനപ്രക്രിയയിൽ പങ്കെടുത്ത ഉണ്ടാവാം നിങ്ങളിൽ പലരും ബയോഎൻജിനീയറിങ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിക്കൽ എൻജിനീയറിങ് പരീക്ഷണശാലകളിൽ അതുമല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് പരീക്ഷണശാലയിൽ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിട്ടുണ്ടാവാം ആ സമയത്ത് നിങ്ങൾ പലതരത്തിലുള്ള വെസ്സലുകൾ കണ്ടിട്ടുണ്ടാവാം അതിനെ നിങ്ങൾ T 70 T 20 ഫ്ലാസ്ക് എന്നൊക്കെ വിളിക്കും നമുക്കിവിടെ പല ആകൃതിയിലുള്ള വെസ്സലുകളെ കുറിച്ചുള്ള ബാഹ്യമായ അറിവ് നേടാം അപ്പോൾ നമുക്ക് മൂന്നാം വാരത്തിൽ ഉള്ള നാലാമത്തെ പാഠഭാഗത്തുലേക്ക് കടക്കാം W 3 L 4 ഇനി നിങ്ങൾ സുതാര്യം ആയിട്ടുള്ള 15mm ഉള്ള പോളികാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ വളരെ കനം കുറഞ്ഞ ഡിഷ് കണ്ടിട്ടുണ്ടാകും ഇതിന് ഒരു അടപ്പും ഉണ്ടാകും ഇതിൻറെ വ്യാപ്തി ഏകദേശം 15 സെൻറീമീറ്റർ ആണ് ഇതിൻറെ ഉയരം നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല അത് ഏകദേശം ഒറ്റസംഖ്യയിൽ ഉള്ളതായിരിക്കും ഏകദേശം ഇത്ര വരും അപ്പോൾ ഏകദേശം ഇത്രയും അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് കോശങ്ങൾ ഇതിൻറെ അടിയിലാണ് വളരുന്നത് ഇതിൻറെ പകുതി വരെ നിങ്ങൾ മീഡിയം ഒഴിച്ചു വെക്കണം മീഡിയം ഒരുപാട് ഒഴിച്ച് വെക്കരുത് കാരണം കോശങ്ങൾ അതിൽ മുങ്ങി കിടന്നാൽ അതിന് ഓക്സിജൻ കിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിഷ് ഇതാണ് പിന്നെ നിങ്ങൾ 90 മില്ലിമീറ്റർ ഡിഷുകളും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതാണ്15 mm ഡിഷ് ഇത് 90 mm ൻറെ ഡിഷ് ഇത് കുറച്ചുകൂടി വലുതാണ് ഇതുപോലെ പിന്നെ നിങ്ങൾ T 20 ഫ്ലാസ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വശത്തുകൂടി നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കോശങ്ങൾ ഇവിടെയാണ് വളരുന്നത് ഇതിൽ ഇവിടം വരെയാണ് നിങ്ങൾ മീഡിയം നിറയ്ക്കേണ്ടത് ഈ ഫ്ലാസ്ക് പല അളവിലും കിട്ടാറുണ്ട് ഇതിൻറെ വലിയ അളവിൽ ഉള്ളതും കിട്ടും ചെറിയ അളവിൽ ഉള്ളതും കിട്ടും ചിലപ്പോൾ വളരെ പഴയ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പം അതൊന്നുമില്ല വളരെ പണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് മേരിലാൻഡ് National Institute of Health United States at Maryland ഇത് ചെയ്യാറുണ്ടായിരുന്നു അവർ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ഇതെല്ലാം പോളികാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതിനു പകരം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വസ്തുവിൻറെ കനവുമായി അതിൻറെ ന്യൂമെറിക്കൽ അപ്പർച്ചറിന് ബന്ധം ഉണ്ടാകുന്നു ന്യൂമെറിക്കൽ അപ്പർച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ മൈക്രോസ്കോപ്പിൻറെ ഒബ്ജക്ടീവിൻറെ ന്യൂമെറിക്കൽ അപ്പർച്ചർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പണ്ട് ഇത്രയധികം പോളികാർബണേറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒബ്ജക്ടീവ് ഇല്ലാതിരുന്ന സമയത്ത് ഗ്ലാസ് കൊണ്ട്ഇവയെല്ലാം ഉണ്ടാക്കി അപ്പോൾ ഇത് ഗ്ലാസിൻറെയും ഇതെല്ലാം പോളികാർബണേറ്റിൻറെയും PCM ഇതിനെ PC എന്നും എഴുതാം ഇതിനിടയിൽ രസകരമായ മറ്റൊന്ന് സംഭവിച്ചിരുന്നു അവർക്ക് പോളികാർബണേറ്റ് സാധനം ഉണ്ടായിരുന്നു പക്ഷേ അതിൻറെ താഴെ ഒരു ദ്വാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കവർ സ്ലിപ്പ് അതിൻറെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കോശങ്ങളെല്ലാം എല്ലാം ഈ ഗ്ലാസ് കവർ സ്ലീപ്പിൻറെ മുകളിലാണ് വളരുന്നത് അത് ഈ കാരണം മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ എളുപ്പമായിരിക്കും ഈ ദ്വാരത്തിൻറെ വലുപ്പം അതിലുള്ള കാര്യങ്ങൾ എല്ലാം കാണാൻ വേണ്ടി തക്കമായതാണ് അത് അത്ര വലുതായിരിക്കും അതിനെ ഇത്ര വലുതായി മുറിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു കൾച്ചർ ലാബിൽ കാണാൻ സാധ്യതയുള്ളത് പക്ഷേ ഇവിടെ ഇതിനേക്കാൾ പ്രധാനമായത് രണ്ടാം ഭാഗമാണ് അവിടെയാണ് നമ്മൾ ശാസ്ത്രവുമായി കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ആൾക്കാർ നേരിട്ട് കോശങ്ങളെ ഈ ഡിഷിൽ അല്ലെങ്കിൽ ഗ്ലാസ് കവർ സ്ലിപ്പിൽ വളർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലാസ് കവർ സ്ലിപ്പുകൾ കൾ പല വലിപ്പത്തിൽ കിട്ടും നിങ്ങൾക്ക് വളരെ കനം കുറഞ്ഞ ഗ്ലാസ് കവർ സ്ലിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അത് സബ്സട്രെറ്റിന് സൌകര്യമാണ് പിന്നെ നിങ്ങൾക്ക് കോശങ്ങളെ ഈ ഗ്ലാസ് കവർ സ്ലിപ്പിനു മുകളിൽ വളർത്താവുന്നതാണ് അപ്പോൾ നിങ്ങടെ കയ്യിൽ 15mm ഡിഷ് 20 mm T 20 ഫ്ലാസ്ക് T 80 ഫ്ലാസ്ക് ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെസ്സലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു മുൻപ് നമ്മൾ ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഏതുതരത്തിലുള്ള കോശങ്ങളെയാണ് ഇവിടെ ഉപയോഗിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കോശങ്ങൾ ഒട്ടിപിടിക്കുന്നത് ആണോ അതോ ഒട്ടിപ്പിടിക്കാത്തത് ആണോ എന്നാണ് നമുക്കിപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത കോശങ്ങളെ കുറിച്ച് പറയാം ഉദാഹരണത്തിന് ഈ വെസ്സലിൽ മീഡിയം നിറച്ചിട്ടുണ്ട് ഇത് മീഡിയമാണ് അതിലേക്ക് കോശങ്ങളെ ഇട്ടു കൊടുക്കുന്നു ഇതിനെ സസ്പെൻഷൻ എന്നു പറയും ഈ കോശങ്ങൾ ഇതിൽ വളരുന്നതിന് സസ്പെൻഷൻ കൾച്ചർ എന്നു പറയും ഇതിനു ബേസ് മെട്രിക്സ് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള കോശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല അത് വേറെ രീതിയിലാണ് ആണ് നോക്കേണ്ടത് നമ്മളിപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന കോശങ്ങളെ കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ അവയ്ക്ക് ബേസ്മെട്രിക്സ് ആവശ്യമാണ് എന്ന് വെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് അല്ലെങ്കിൽ ECM എന്നും പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ECM ആണ് വേണ്ടത് എങ്കിൽ അവിടെ മറ്റൊരു പ്രശ്നം എന്തെന്നാൽ നിങ്ങൾക്ക് ഏതുതരത്തിലുള്ള ECM ആണ് വേണ്ടത് എന്നുള്ളതാണ് ഏത്ECM മോളിക്യൂൾസ് ആണ് വേണ്ടത് എന്ന് കാരണം ഇവിടെ തിരഞ്ഞെടുക്കാൻ രണ്ടെണ്ണം ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പിന്നെ പറയാം ഇവിടെ നിങ്ങളുടെ ഒട്ടിപ്പിടിക്കുന്ന കോശങ്ങൾ വളരുന്നത് നേരിട്ട് പോളികാർബണേറ്റ് ആണ് ഇവിടെ ഇത് പോളികാർബണേറ്റ് ആണ് അല്ലെങ്കിൽ ഗ്ലാസ്സ് കവർ സ്ലിപ്പിലും കോശങ്ങൾക്ക് നേരിട്ട് വളരാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് കോശങ്ങൾക്ക് പച്ചനിറം കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നോക്കേണ്ട കോശങ്ങൾ ഇവിടെ ഏകദേശം 1000 കോശങ്ങൾ ഉണ്ട് ഇതിനെയാണ് നിങ്ങൾക്ക് സബ്സ്ട്രേറ്റിൻറെ മുകളിൽ പ്ലേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിഷ് ഇതിൻറെ മുകളിൽ ആണ് കോശങ്ങളെ പ്ലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ കുറച്ച് മീഡിയം ഒഴിച്ചു വയ്ക്കണം എന്നിട്ട് കോശങ്ങളെ മുകളിൽ പ്ലേറ്റ് ചെയ്യുക അപ്പോൾ ഈ കൾച്ചർ ഡിഷിൻറെ താഴെ കുറച്ച് മീഡിയം ഉണ്ട് അത് വളരെ കുറച്ച് ആയിരിക്കും ഇത് ഒരു പാള ആയിട്ട് നിക്കും ഇതിൻറെ മുകളിലോട്ടാണ് നമ്മൾ കോശങ്ങളെ ഉരുട്ടി വിടുന്നത് അതിനെ വ്യക്തമായി നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും എത്ര മനോഹരമായിട്ടാണ് കോശങ്ങൾ ഇതിൻറെ മുകളിലൂടെ ഉരുണ്ടു വരുന്നത് എന്ന് പലരും ഇതിനെ കാണാൻ വേണ്ടി ഇതിൻറെ ബേസിനെ നിരപ്പും ആയി സമാന്തരരേഖയിൽ നിർത്തുകയോ അല്ലെങ്കിൽ 180 ഡിഗ്രി ൽ വയ്ക്കുകയോ ചെയ്യും അതായത് ഇത് അങ്ങോട്ടുമിങ്ങോട്ടും ചരിയാൻ പാടില്ല ഇനി തുടക്കത്തിൽ അതായത് സമയം T 0 എന്നുവെച്ചാൽ നമ്മൾ പ്ലേറ്റ് ചെയ്തു കഴിഞ്ഞ ഉടനെയുള്ള സമയം അതിനെ ഇങ്ങനെ കാണും അവിടെ ചെറിയ ചലനങ്ങൾ കാണാൻ പറ്റും അത് വേഗതയുള്ളതും വേഗത കുറഞ്ഞതും ആകും അത് നമ്മൾ എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നത് എന്നത് അനുസരിച്ചിരിക്കും പക്ഷേ എന്തായാലും അവിടെ ഒരു ചലനം ഉണ്ടായിരിക്കും എല്ലാ ദിശയിലേക്കും നിങ്ങൾ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നല്ല രസകരമായി തോന്നാം എന്തെന്നാൽ ഈ കോശങ്ങൾ അവസാനം ഒരു സ്ഥലത്ത് നിൽക്കും ഇനി ഈ കോശങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ദാ ഇവയ്ക്ക് ചുവപ്പുനിറം കൊടുക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കും ഈ കോശങ്ങളെല്ലാം ഒട്ടി പിടിക്കാൻ പോവുകയാണ് പോളികാർബണേറ്റ് അല്ലെങ്കിൽ ഗ്ലാസിൽ ഉപരിതലത്തിലുള്ള കോശങ്ങൾ ഒട്ടി പിടിക്കും ഇങ്ങനെ വരണമെങ്കിൽ ആ കോശങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവേണ്ടതാണ് ഉദാഹരണത്തിന് ഉപരിതലത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നിട്ട് പോളികാർബണേറ്റ് അല്ലെങ്കിൽ ഗ്ലാസിൽ ഒരു തരത്തിലുള്ള ഉള്ള നെഗറ്റീവ് ചാർജ് ഉണ്ട് എല്ലാ വസ്തുക്കൾക്കും ചെറിയ തരത്തിൽ ഉള്ള ചാർജ് അതിൻറെ ഉപരിതലത്തിൽ ഉണ്ടാകും അത് സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കും ഇനി കോശങ്ങളുടെ പുറത്തുള്ള പോസിറ്റീവ് ചാർജ് മറ്റുള്ളതുമായി സമ്പർക്കം പുലർത്തുന്നത് ഇങ്ങനെയാണ് നോക്കൂ നിങ്ങൾക്കിവിടെ പോസിറ്റീവ് ചാർജുള്ള കോശങ്ങളുണ്ട് ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഈ പോസിറ്റീവ് ചാർജ് എവിടെനിന്നു വരുന്നു എന്ന് ഇതെല്ലാം പ്രോട്ടീൻസിനെ പോലെയാണ് ഈ പോസിറ്റീവ് ചാർജുള്ള ആയോൺ അതിലുണ്ട് ഇപ്പോൾ തത്കാലത്തേക്ക് വിചാരിക്കുക ചിലയിടത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള മോളിക്യൂൾസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോശങ്ങളെല്ലാം പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് എന്നാണ് അത് നോക്കൂ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കൊടുക്കുന്ന ഒരു ചിഹ്നം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ആകർഷിക്കപ്പെടുന്ന ചാർജുകൾ ആണ് ഇവിടെ നമ്മുടെ ഉപരിതലം നെഗറ്റീവ് ചാർജ് ഉള്ളതാണ് ഇത് കാരണം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുന്നു അവിടെ തുടക്കത്തിൽ ഒരു ബലഹീനമായ ബന്ധനം ഉണ്ടാവുന്നു അത് ഏകദേശം ഇതുപോലെ ഇരിക്കും ചെറുതായിട്ട് ഒരു ബന്ധം ഞാൻ പറയുന്നില്ല അവർ വളരെ പെട്ടെന്ന് ഒട്ടി പിടിക്കുമെന്ന് അവിടെ ചെറിയൊരു ഒരു ഇളക്കം ഉണ്ടാകും ഇതുപോലെ അപ്പോൾ അതാണു ആദ്യ തരത്തിലുള്ള സമ്പർക്കം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കോശങ്ങളെല്ലാം ഒരു പ്രത്യേകതരത്തിലുള്ള പ്രോട്ടീനും ഒരു പ്രത്യേകതരം മെട്രിക്സ് മോളിക്യൂളും പുറത്തേയ്ക്ക് വിടും അതിനെ ഞാൻ ഇവിടെ പിങ്ക് നിറത്തിൽ കാണിക്കുന്നു അതിനെ എക്സ്ട്രാ പേര് തന്നെ അത് എന്താണെന്ന് കാണിക്കുകയാണ് അതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് മെറ്റീരിയൽ എന്നു പറയുന്നു ഈ വസ്തു പലതരത്തിലുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് പിന്നെ ലോങ്ങ് ചെയിൻ മോളിക്യൂളുകൾ ഒരു ശൃംഖലയും ചേർന്നുണ്ടായതാണ് ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ കോശം ഇതാണ് സബ്സ്ട്രെറ്റ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ സമ്പർക്കം കാണാൻ പറ്റും സബ്സ്ട്രെറ്റ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളവയെ സമ്പർക്കം വഴി അവിടെ നിർത്തുന്നു അതിനുശേഷമാണ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് മെറ്റീരിയൽ പുറത്തുവരുന്നത് അത് ഇങ്ങനെ ഇത് ഒരു തരത്തിൽ കോശങ്ങളെ അവിടെ ഉറപ്പിച്ചു വയ്ക്കുന്നതാണ് ഇതാണ് ഉറപ്പിക്കുകപെടുന്ന മോളിക്യൂൾസ് ഇനി നിങ്ങളുടെ അറിവ് കൂട്ടാനായി ഞാൻ പണ്ട് ചെയ്ത രസകരമായ ഒരു പരീക്ഷണം ഇവിടെ പറയാം അത് ഏകദേശം 2003 അല്ലെങ്കിൽ 2002 ആയിരുന്നു എനിക്ക് തോന്നുന്നു 2001 ആണെന്ന് വളരെ രസകരമായ ഒരു പരീക്ഷണമായിരുന്നു അതിൽ കോശങ്ങളെ ഇങ്ങനെ പ്ലേറ്റ് ചെയ്തു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വഴി അവയെ പ്ലേറ്റ് ചെയ്തു എന്നിട്ട് 2 മണിക്കൂർ 6 മണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് കോശങ്ങളെ അവിടെനിന്ന് മാറ്റി അതിനുശേഷം എന്താണ് കണ്ടത് എന്ന് വെച്ചാൽ ദാ ഈ ചിത്രത്തിൽ നോക്കൂ നമുക്ക് ഇവിടെയുള്ള കോശങ്ങളെ അതിനുചുറ്റുമുള്ള പരിസ്ഥിതിക്ക് കുഴപ്പം വരാതെ എടുക്കാൻ പറ്റിയാൽ നമുക്ക് അവിടെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് മെറ്റീരിയൽ കിട്ടും അത് അവിടെ അടിഞ്ഞ് കിടപ്പുണ്ട് ഈ അവസ്ഥയിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീകനു എതിരായിട്ടുള്ള ആൻറി ബോഡീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവിടെ ആൻറിബോഡിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്കായി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകമൊരു മോളിക്യൂൾ ഉണ്ട് ഈ മോളികുകളുമായി ബന്ധിക്കാൻ കഴിയുന്ന ബൈൻഡർ ഉണ്ട് ഇതിനെയാണ് നമ്മൾ ആൻറിബോഡി എന്നു പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറുതായി പറഞ്ഞതാണ് ഇപ്പോ എനിക്ക് ഒരു ആൻറിബോഡി ഇതിനെതിരായി ഉണ്ടെന്നു വിചാരിക്കുക അതിനെ ഞാൻ ABS എന്ന് അടയാളപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പോ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് അടിഞ്ഞുകൂടുന്നു നേരത്തെ അവിടെ പോളികാർബണേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനർത്ഥം ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുന്നതിനു കാരണം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ആണ് അതാണ് കോശത്തിനുള്ളിൽ ഉള്ള ന്യൂക്ലിയസിൻറെ അകത്തുള്ള ഡിഎൻഎ കൊണ്ട് ഒരു എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീൻ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീൻ ഉണ്ടാക്കിപ്പിക്കുന്നു അപ്പോ കോശങ്ങൾക്ക് അവിടെ ഒട്ടിപിടിച്ചിരിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഡിഎൻഎ യുടെ അടുത്ത് പറയും അപ്പോ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുക ഒരു ചെറിയ ഇലക്ട്രോ സ്റ്റാറ്റിക് ഇൻറക്ഷൻ ഡിഎൻഎ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിക്കുന്നു അതോടെ ഈ കാണുന്ന പ്രശ്നത്തെ വേറൊരു രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകുന്നു സർഫേസ് കെമിസ്ട്രി അല്ലെങ്കിൽ സർഫസ് സെല്ലുലാർ ബയോളജിയിലൂടെ സർഫസ് സെൽ കെമിസ്ട്രി അല്ലെങ്കിൽ സെൽ ബയോളജിയിലൂടെ ഇതിൽ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നാം ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള ചില കോശങ്ങൾ ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് വേറൊരു കാര്യത്തിലേക്ക് കടക്കാം അപ്പൊൾ ഇതാണ് ഈ മോളിക്യൂളുകളുടെ സ്വഭാവം ഓരോ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഓരോ തരത്തിലുള്ള കോശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഗുണത്തിൻറെ കാര്യത്തിലായാലും അളവിൻറെ കാര്യത്തിലായാലും ഇതിനർത്ഥം ഉദാഹരണത്തിന് ഇവിടെ 5 തരത്തിലുള്ള ഈ സി എം കോംപ്ലക്സ് ഉണ്ട് അത് ഓരോ തരത്തിലുള്ള കോശങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇതിനർത്ഥം ഇതല്ല ഈ കോശങ്ങളെല്ലാം ഈ അഞ്ച് തരത്തിലുള്ളവ ഉപയോഗിക്കുമെന്ന് ചിലത് 2 ഉപയോഗിക്കുംചിലത് 13 ഉപയോഗിക്കും ചിലത് 5 ഇപ്പോ നമ്മളിങ്ങനെ കരുതുകയാണ് 2 കോശങ്ങൾ എല്ലാ 5 ഉപയോഗിക്കുന്നു എന്ന് അപ്പോൾ ഈ 2 നെ തിരിച്ചറിയാൻ സാധിക്കും കാരണം അവര് ഇത് ഉപയോഗിക്കുന്നത് വേറെ രീതിയിൽ ആയിരിക്കും അവർ ചിലപ്പോൾ പുറത്തുവിടുന്നത് 1 ആയിരിക്കാം അത് 2345 നേക്കാളും കൂടുതലായിരിക്കും അവർ അല്ലെങ്കിൽ രണ്ടും മൂന്നും ആയിരിക്കും അതും പുറത്തുവിടുന്നത് അത് ഒന്നിനെയും നാലിനെയും അഞ്ചിനേക്കാളും കൂടുതലായിട്ട് ആയിരിക്കും പുറത്തുവിടുന്നത് അപ്പോ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള കൂട്ടുകെട്ടുകളും ഉണ്ടാക്കാം വേറൊരു ഒരു ആകർഷകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഓരോ കോശങ്ങൾക്കും പ്രത്യേകം ആയിട്ടുള്ളതാണ് കോശങ്ങളുടെ തരം അനുസരിച്ച് കോശങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കും നിങ്ങൾ ഒന്നു ചിന്തിക്കൂ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഉപയോഗം എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം അതൊക്കെ ഇവിടെ ഞാൻ നിർത്തുകയാണ് നന്ദി എല്ലാവരും ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി ബാക്കി അടുത്ത ഭാഗത്ത് കാണാം